നമസ്കാരം 'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി' എന്ന കോഴ്സിലെ ഇന്നത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ലെക്ച്ചറുകളിലായി മൂലകോശങ്ങളുടെ മെക്കാനോബയോളജി അഥവാ ഭൌതികമായ ഘടകങ്ങളുടെ പ്രഭാവം അവയിൽ പ്രകടമാകുന്ന ഡിഫറെൻസിയേഷൻ പ്രക്രിയയെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന ചർച്ചകൾക്ക് നാം ആരംഭം കുറിച്ചിരുന്നു പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രബന്ധങ്ങൾ ഞാൻ ചർച്ച ചെയ്യുകയുണ്ടായി ഒന്ന് കോശങ്ങളുടെ ആകൃതിയെ ആധാരമാക്കിയുള്ള നിയന്ത്രണത്തെ കുറിച്ചും മറ്റൊന്ന് ECM ന്റെ ദൃഢതയിൽ ഊന്നിയുള്ള ക്രമീകരണത്തെ പറ്റിയുമാണ് ECM ന്റെ ദൃഢത അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിൽ hMSC കോശങ്ങളെ വ്യത്യസ്ത ദൃഢതകളുള്ള പ്രതലങ്ങളിൽ നമ്മൾ പ്ലേറ്റ് ചെയ്യുകയാണുണ്ടായത് മേല്പറഞ്ഞ hMSC കോശങ്ങൾ മസ്തിഷ്കത്തിന് സമാനമായ മൃദുപ്രതലങ്ങളിൽ ന്യൂറോജെനിക് ലീനിയേജിലേക്ക് ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നതായാണ് നമുക്ക് ദൃശ്യമായത് പേശികൾക്ക് അനുരൂപമായ ദൃഢതയുള്ള ഉപരിതലങ്ങളിൽ ഇവ മയോജെനിക് ലീനിയേജും എന്നാൽ അസ്ഥിക്ക് സമാനമായ അധികദൃഢതയുള്ള പ്രതലങ്ങളിൽ അവ ഓസ്റ്റിയോജെനിക് ലീനിയേജുമാണ് കാഴ്ചവെക്കുകയുണ്ടായത് ഓർത്തുനോക്കുമ്പോൾ പ്രസ്തുത സന്ദർഭങ്ങളിലെല്ലാം കോശങ്ങളുടെ ആകൃതിയിൽ ഏകദേശം 4 മുതൽ 6 മണിക്കൂറിനുള്ളിലാണ് വ്യക്തമായ പരിവർത്തനം പ്രകടമായത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ദൃഢത എന്ന ഘടകം ഇവിടെ സിഗ്നലായി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട് എങ്കിലും കോശങ്ങളുടെ ആകൃതിയിൽ വരുന്ന നിയതമായ മാറ്റങ്ങളാണ് മേല്പറഞ്ഞ ഡിഫറൻസിയേഷൻ പ്രക്രിയയ്ക്ക് നിദാനമാകുന്നത് പ്രാരംഭദശയിൽ തന്നെ പ്രോഗ്രാം ചെയ്യപ്പെടുന്നതിനാൽ കോശങ്ങളുടെ ആകൃതി അവയുടെ മൊത്തമായ വ്യവസ്ഥിതിയെ ആകമാനം സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത മേല്പറഞ്ഞ സ്വാധീനത്തിന്റെ അനുശാസനത്തിലാണ് അവയിൽ ന്യൂറോജെനിക് മയോജെനിക് അല്ലെങ്കിൽ ഓസ്റ്റിയോജെനിക് ഫേറ്റ് പ്രകടമാകുന്നത് ഈ കാണുന്ന നാല് പ്രബന്ധങ്ങൾ റീഡിങ് അസൈൻമെന്റിന്റെ ഭാഗമായി ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുകയാണ് കോശങ്ങളുടെ ആകൃതി നിയന്ത്രിക്കുന്നതിലൂടെ സാന്ദ്രത എന്ന ഘടകം മൂലകോശങ്ങളുടെ വിധിനിർണ്ണയത്തിൽ പരോക്ഷമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഡെവലപ്പ്മെന്റൽ സെൽ പേപ്പറാണിത് എന്നാൽ ഇതാകട്ടെ വലുപ്പം അതേപടി നിയതമായി നിലനിർത്തി അനുപാതത്തിൽ മാത്രം വ്യതിയാനം വരുത്തി നടത്തിയ പഠനങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രബന്ധമാണിത് കോശങ്ങളുടെ വ്യാപനത്തിൽ പ്രതലങ്ങളുടെ ദൃഢത ചെലുത്തുന്ന പ്രഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രഥമഃ പഠനമാണ് മൂന്നാമത്തെ പ്രബന്ധം ചർച്ച ചെയ്യുന്നത് അതുപോലെ വ്യത്യസ്ത ദൃഢതകളുള്ള പ്രതലങ്ങളിൽ അണിനിരത്തിയ മൂലകോശങ്ങളുടെ വിധിനിർണ്ണയമാണ് നാലാമത്തെ പ്രബന്ധത്തിന്റെ ചർച്ച വിഷയം ECM ന്റെ ദൃഢത മൂലകോശങ്ങളുടെ വിധിനിർണ്ണയത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് സ്ഥിതീകരിക്കുന്ന പഠനങ്ങളാണ് നാം നേരത്തെ സൂചിപ്പിച്ചത് ഈ കാണുന്നതെല്ലാം വിവിധതരം വ്യവസ്ഥകളാണ് സസ്തനികളുടെ ശരീരപിണ്ഡത്തിന്റെ മുപ്പത് ശതമാനം അളവിൽ കാണപ്പെടുന്ന സുപ്രധാന സ്ട്രച്ചർ പ്രോട്ടീനായ ടൈപ്പ് 1 കൊളാജെനാണ് ഈ കാണുന്ന ECM ഘടനയുടെ മുഖ്യഘടകം ചുരുക്കിപ്പറഞ്ഞാൽ ECM ഘടനയുടെ സ്വഭാവസവിശേഷതകളെ ഒന്നടങ്കം സ്വാധീനിക്കുന്ന പരമപ്രധാനമായ പ്രോട്ടീനാണ് മേല്പറഞ്ഞ കൊളാജെൻ ECM ന്റെ ദൃഢതയിൽ പ്രകടമാകുന്ന മാറ്റം മേൽ സൂചിപ്പിച്ച കൊളാജെന്റെ അളവിൽ ദൃശ്യമാകുന്ന പരിവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് നമുക്ക് അവബോധപൂർവ്വം ഊഹിക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത പ്രസ്തുത പ്രസ്താവന തീർത്തും വസ്തുനിഷ്ഠമാണ് ഫൈബ്രോസിസിന്റെ കുടക്കീഴിൽ വരുന്ന വിവിധയിനം രോഗാവസ്ഥകളുടെ ആതിഥേയത്വം വഹിക്കുന്നത് ഇവർ തന്നെയാണ് എന്താണ് ഈ ഫൈബ്രോസിസ് ചുരുക്കിപ്പറഞ്ഞാൽ കൊളാജെൻ 1 പോലുള്ള ECM പ്രോട്ടീനുകൾ അടിഞ്ഞുകൂടുന്ന ഒരു രോഗാവസ്ഥയാണിത് ഹൃദയസംബന്ധമായ അസുഖങ്ങളിലും വിവിധയിനം ക്യാൻസറുകളിലും ഇത് ദൃശ്യമാണ് എന്നതാണ് വസ്തുത ക്യാൻസറിൽ പ്രബലമായ ഫൈബറുകളുടെ സാന്നിധ്യമുണ്ടെന്ന് ഗവേഷകർ നിരീക്ഷിക്കുകയുണ്ടായി ക്യാൻസറിൽ കാണപ്പെടുന്ന സുശക്തമായ ഫൈബ്രോട്ടിക് പ്രതികരണത്തെ ഡെസ്മോപ്ലാസിയ എന്നാണ് നാം അഭിസംബോധന ചെയ്യുന്നത് മേല്പറഞ്ഞ സന്ദർഭത്തിൽ col 1 col 3 എന്നീ കൊളാജെനുകൾ അപ്പ് റെഗുലേറ്റഡായതിനാൽ തന്നെ വർദ്ധിതമായ അളവിൽ അവ അടിഞ്ഞുകൂടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതെ സമയം col 4 എന്ന കൊളാജെന്റെ ഡീഗ്രഡേഷൻ സംഭവിക്കുന്നതായും നമുക്ക് ദൃശ്യമാകും ഫൈബ്രോസിസും രോഗനിർണ്ണയവും തമ്മിൽ നിയതമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത നിലവാരം കുറഞ്ഞ രോഗനിർണ്ണയ പ്രക്രിയയിൽ ഫൈബ്രോസിസ് അവ്യക്തമായതിനാൽ സാധാരണയായി മാമ്മറി കാർസിനോമ കണ്ടെത്താതെ പോകുന്ന അവസ്ഥകൾ പോലും നിലവിലുണ്ട് ഇത് കൂടാതെ ECM ൽ പ്രകടമാകുന്ന ഡെപോസിഷന്റെ വർദ്ധനവും അവയുടെ ക്രോസ്സ് ലിങ്കിങും തമ്മിൽ സുവ്യക്തമായ ഒരു ബന്ധമുണ്ട് എന്ന നിരീക്ഷണവും ഗവേഷകർ നടത്തുകയുണ്ടായി ഫൈബ്രോസിസുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന പതോളജിക്കൽ ടിഷ്യൂസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ col 1 3 എന്നീ കൊളാജെനുകൾ അധികതോതിൽ ദൃശ്യമാകുന്ന സ്തനാർബുദം എന്ന രോഗാവസ്ഥ നിങ്ങൾക്ക് കണക്കിലെടുക്കാവുന്നതാണ് ഇവിടെ വർദ്ധിച്ച നിരക്കിൽ ട്യൂമർ ഇൻവേഷനും മാക്രോഫേജ് ഇൻഫിൽട്രേഷനും പ്രകടമായിരിക്കും എന്നതാണ് വസ്തുത സമാനമായ സ്ഥിതിഗതികൾ തന്നെയാണ് പാൻക്രിയാറ്റിക് ക്യാൻസറിലും കാണപ്പെടുന്നത് കാരണം മേല്പറഞ്ഞ രണ്ട് അവസ്ഥകളും പാൻക്രിയാറ്റിക് ക്യാൻസറിലും ദൃശ്യമാണ് ചുരുക്കിപ്പറഞ്ഞാൽ ഇവയെല്ലാം പരസ്പരബന്ധിതമായത് കൊണ്ടുതന്നെ കൊളാജെന്റെ അളവിൽ വർദ്ധനവുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ദൃഢതയുടെ നിരക്കിലും അതിന്റെ പ്രതിഫലനമുണ്ടാകുന്നു എന്നതാണ് വസ്തുത വർദ്ധിത നിരക്കിലുള്ള ദൃഢതയുടെ പ്രഭാവത്തെ കുറിച്ച് പഠിക്കുവാൻ ഗവേഷകരിൽ പലരും ശ്രമിക്കുകയുണ്ടായി വാൻഡെർബിൽറ്റ് സർവകലാശാലയിലെ അലിസ്സ വീവർ എന്ന ഗവേഷക ദൃഢത എന്ന ഘടകം ഇൻവേഡോപോഡിയയുടെ പ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠനം നടത്തുകയുണ്ടായി ഇൻവേഡോപോഡിയ എന്നാൽ എന്താണെന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് മുൻപിൽ ഒരു മെട്രിക്സ് ഉണ്ടെന്ന് സങ്കല്പിക്കുക അതിന്റെ ഉൾവശങ്ങളിലായി കാണപ്പെടുന്ന പ്രൊട്രൂഷനുകളെയാണ് നാം ഇൻവേഡോപോഡിയയെന്ന് വിശേഷിപ്പിക്കുന്നത് മേല്പറഞ്ഞ പ്രൊട്രൂഷനുകൾ മെട്രിക്സിലേക്ക് ആഴ്ന്നിറങ്ങി അവയെ ഡീഗ്രേഡ് ചെയ്യാൻ ഉതകുന്നവയാണ് എന്നതാണ് വസ്തുത പ്രസ്തുത പരീക്ഷണത്തിൽ അലിസ്സ വീവർ പോളിഅക്രിലമൈഡ് ജെൽ കൊണ്ട് രണ്ട് പ്രതലങ്ങൾ നിർമ്മിക്കുകയുണ്ടായി മേല്പറഞ്ഞ പ്രതലങ്ങളിൽ ഒന്ന് മൃദുവായതും മറ്റൊന്ന് ദൃഢമായതുമാണ് പ്രസ്തുത പരീക്ഷണത്തിന്റെ ഭാഗമായി അവർ ഇവയിൽ ഏതാനും ചില കോശങ്ങൾ അണിനിരത്തുകയുണ്ടായി ശേഷം പ്രതലങ്ങളുടെ ദൃഢതയും അവയിൽ കാണപ്പെടുന്ന ഇൻവേഡോപോഡിയയും തമ്മിൽ പരസ്പരം എന്തെങ്കിലും ബന്ധം നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം അവർ ഉന്നയിക്കുകയുണ്ടായി മേല്പറഞ്ഞ പ്രതലങ്ങൾ ഫ്ലൂറെസെന്റ് ഫൈബ്രോനെക്റ്റിൻ ഉപയോഗിച്ച് ക്രോസ്സ് ലിങ്കിങ് ചെയ്ത മാതൃകയിലാണ് കാണപ്പെടുന്നത് മുകളിൽ നിന്നും കാണുന്ന മാതൃകയിലാണ് നിരീക്ഷണം നടത്തിയത് നമുക്ക് ഈ കാണുന്ന മൂന്ന് ചിത്രങ്ങൾ കണക്കിലെടുക്കാം ഇതിൽ ഒന്ന് ആക്ടിൻ രണ്ട് കോർട്ടാക്റ്റിൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരിനം ഇൻവേഡോപോഡിയ മാർക്കർ മറ്റൊന്ന് ഫൈബ്രോനെക്റ്റിൻ എന്നിവയാണ് നമുക്കിവിടെ FITC ഫൈബ്രോനെക്റ്റിൻ തന്നെയെടുക്കാം മേൽ സൂചിപ്പിച്ചത് പോലെ ഇത് ഇവയുടെ മുകളിൽ നിന്നുമുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് ഒരു കോശത്തിന്റെ രേഖാചിത്രമാണ് ഇതാണ് അതിനെ വലയം ചെയ്യുന്ന മെട്രിക്സ് കോർട്ടാക്റ്റിനുമായി കോ ലോക്കലൈസ് ചെയ്യുന്ന ഇൻവേഡോപോഡിയയുടെ ഉദാഹരണമാണിത് പ്രസ്തുത സന്ദർഭത്തിൽ ഈ കാണുന്ന മെട്രിക്സിൽ നമുക്ക് ഫ്ലൂറസെൻസ് ദൃശ്യമാകുന്നില്ല ചുരുക്കിപ്പറഞ്ഞാൽ ഫ്ലൂറസെൻസിന്റെ അഭാവം ഇവിടെ പ്രകടമാണെന്ന് സാരം അക്ഷരാർത്ഥത്തിൽ ഇത് ഡീഗ്രഡേഷന് അനുരൂപമായ പ്രക്രിയയുടെ സാന്നിധ്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇൻവേഡോപോഡിയയുടെ രൂപീകരണവും അവയുടെ മധ്യസ്ഥതയിൽ പ്രകടമാകുന്ന ഡീഗ്രഡേഷന്റെയും സൂചനയാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് ദൃഢതയുടെ നിരക്കിൽ വർദ്ധനവ് അനുവദിക്കുമ്പോൾ ഇൻവേഡോപോഡിയയുടെ എണ്ണവും അനുവർത്തിയായ ഡീഗ്രഡേഷൻ പ്രവണതയും മേല്പറഞ്ഞ ദൃഢതയെ ആശ്രയിച്ചിരിക്കുന്നു എന്നവർ സ്ഥിതീകരിക്കുകയുണ്ടായി ചുരുക്കിപ്പറഞ്ഞാൽ ഇൻവേഡോപോഡിയയുടെ മധ്യസ്ഥതയിൽ പ്രകടമാകുന്ന ഡീഗ്രഡേഷൻ പ്രക്രിയ വാസ്തവത്തിൽ ദൃഢത എന്ന ഘടകത്തിൽ ആശ്രിതമാണെന്ന് സാരം ദൃഢതയിൽ പ്രകടമാകുന്ന വർദ്ധനവ് ഒരു പക്ഷെ ഇത്തരമൊരു ഫീനോടൈപ്പിലേക്ക് നയിച്ചേക്കാം എന്ന സൂചനയാണ് മേല്പറഞ്ഞ പഠനം വ്യക്തമാകുന്നത് ECM ന്റെ ദൃഢതയിൽ പ്രകടമാകുന്ന വർദ്ധനവ് ഇൻവേഡോപോഡിയയുടെ ഉയർന്ന നിരക്കിലുള്ള പ്രവർത്തനവുമായി നേരിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ECM ന്റെ ദൃഢതയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വഭാവസവിശേഷതകളിൽ പ്രകടമാകുന്ന വ്യതിയാനം ഒരു പക്ഷെ ക്യാൻസറിന്റെ പടിപടിയായുള്ള വികാസത്തിന് പ്രേരിതമാകാനുള്ള സാധ്യതയിലേക്കാണ് പ്രസ്തുത പഠനം വിരൽ ചൂണ്ടുന്നത് മേല്പറഞ്ഞ പരിവർത്തനം ക്യാൻസറിന്റെ പരിണിതഫലമായല്ല ദൃശ്യമാകുന്നത് എന്നത് തീർത്തും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് പ്രസ്തുത ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിനായി വലേരി വീവർ എന്ന ഗവേഷക സ്തനാർബുദത്തിൽ സഹജമായ ഇൻവേഷൻ എന്ന പ്രക്രിയയെ കുറിച്ച് ഏതാനും ചില പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായി എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിന്റെ ദൃഢതയും മാലിഗ്നൻസിയും തമ്മിൽ നിലനിൽക്കുന്ന പരസ്പരവ്യവഹാരത്തെ കുറിച്ചും അവർ പഠനം നടത്തുകയുണ്ടായി പ്രസ്തുത പരീക്ഷണത്തെ പറ്റി വിശദീകരിക്കുന്നതിന് മുൻപായി സ്തനത്തിന്റെ അവയവ ഘടനയെ കുറിച്ച് ഹ്രസ്വമായി നമുക്കൊന്ന് വിശകലനം ചെയ്യാം പാൽ ചുരത്താൻ സഹായകമാകുന്ന ഒട്ടനേകം ലോബ്യൂളുകൾ സ്തനങ്ങൾക്കുള്ളിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ട് ഇത്തരമൊരു രൂപഘടനയുള്ള ലോബ്യൂളുകൾ പതിയെ ഒത്തിണങ്ങി ക്രമേണ നിപ്പിളിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഉല്പാദിപ്പിക്കപ്പെടുന്ന പാൽ ഈ കാണുന്ന പരസ്പരബന്ധിതമായ ധമനികളിലൂടെ കടന്നുപോകുകയാണ് ചെയ്യുന്നത് ഈ കാണുന്നതാണ് ധമനികൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലോബ്യൂളുകളാണ് പ്രസ്തുത ലോബ്യൂളിന്റെ രൂപഘടനയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അഡിപോസ് ടിഷ്യൂസിന്റെ ഒരു വലയം ഇവയ്ക്ക് ചുറ്റും നിലകൊള്ളുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അല്പം കൂടി സൂം ഇൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ മേല്പറഞ്ഞ ഘടനയിൽ ഏതാനും ചില വിടവുകൾ നമുക്ക് ദൃശ്യമാകും പ്രസ്തുത വിടവുകളാണ് സ്രവിക്കുന്ന പാലിനെ നിപ്പിളിലേക്ക് നയിക്കുന്നത് കുറച്ച് കൂടി സൂം ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിന് മുകളിലായി എപ്പിത്തീലിയൽ കോശങ്ങൾ അണിനിരത്തിയ അസീനി എന്ന അംഗവിന്യാസം നമുക്ക് ദൃശ്യമാകും മേല്പറഞ്ഞ ധമനികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അവയിൽ ഏതാനും ചില എപ്പിത്തീലിയൽ കോശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്നത് ധമനികളുടെ സുദീർഘമായ ആക്സിസാണ് ഇവയ്ക്ക് കീഴിലായി ഒരു ബേസൽ ലാമിനയും അതിനെ വലയം ചെയ്ത് ഒരു ബേസ്മെന്റ് മെംബ്രേയ്നും നിലകൊള്ളുന്നുണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ വ്യക്തമായ അതിരുകൾക്കുള്ളിൽ ഇവയുടെ പരിധി കൽപിച്ചിട്ടുണ്ട് എന്ന് സാരം പ്രസ്തുത കോശങ്ങൾ പാൽ ഉല്പാദിപ്പിക്കുകയും ഇവയെ വലയം ചെയ്യുന്ന ധമനികളിലൂടെ അവ പതിയെ ഒഴുകകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത രണ്ട് വ്യത്യസ്തയിനം ക്യാൻസറുകൾ ഉടലെടുക്കാനുള്ള സാധ്യത പരിമിതമാണ് എന്നാൽ രണ്ട് വ്യത്യസ് തരം ക്യാൻസർ ഉടലെടുത്താൽ അവയെ നാം ലോബ്യൂലാർ കാർസിനോമ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഈ കാണുന്ന ധമനികളും ലോബ്യൂകളും ഘടനപരമായ തകരാറിലകപ്പെടുകയും പ്രസ്തുത സന്ദർഭത്തിൽ കോശങ്ങൾ പതിയെ ഇരച്ചുകയറുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെ നിലവിലുള്ളത് ഈ സമയം എപ്പിത്തീലിയൽ കോശങ്ങൾ വർദ്ധിതമായ നിരക്കിൽ ഉല്പാദിപ്പിക്കപ്പെടുകയും ഉയർന്ന തോതിലുള്ള വ്യാപനം കാഴ്ചവെക്കുകയും ചെയ്യുന്നു മേല്പറഞ്ഞ വ്യാപനം ECM നാൽ വലയം ചെയ്യപ്പെട്ട വാസ്ക്യുലേച്ചർ വരെ പടർന്നെത്തുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത ഡക്റ്റൽ കാർസിനോമയുടെ കാര്യത്തിലും സമാനമായ സംഭവം തന്നെയാണ് ദൃശ്യമാകുന്നത് ഘടന നഷ്ടപ്പെടുകയും ബേസൽ ലാമിന പിളരുകയും ചെയ്യുമ്പോൾ പിന്നീട് ഈ കാണുന്ന കോശങ്ങൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് അവ ക്രമേണ പരിധി ലംഘിച്ച് മൈഗ്രേറ്റ് ചെയ്യുകയാണ് പതിവ് ആദ്യപടിയായി മേല്പറഞ്ഞ കോശങ്ങളുടെ നിരക്കിൽ ക്രമാധീതമായ വർദ്ധനവ് പ്രകടമാകുകയും ശേഷം അവ പതിയെ ബേസ്മെന്റ് മെംബ്രേയ്നിനെ മറികടന്ന് വ്യാപിക്കുകയും ചെയ്യുന്നു രണ്ട് വ്യത്യസ്തയിനം അർബുദങ്ങളുടെ സ്ഥിതിവിശേഷങ്ങൾ വിശദീകരിക്കുന്ന ഒരു രംഗമാണിത് ട്യൂമറിനകത്തും പുറത്തുമുള്ള ടിഷ്യുവിന്റെ സ്വഭാവസവിശേഷതകൾ എങ്ങനെ അസ്വസ്ഥമാകുന്നുവെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്തുനോക്കാം 200Pa ദൃഢതയുള്ള സസ്തനഗ്രന്ഥി സാധാരണഗതിയിൽ അതിമൃദുലമായ ഒരവയവമാണ് Nm2 നെയാണ് നാം ഇവിടെ പാസ്കൽ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് മസ്തിഷ്കത്തിൽ കാണപ്പെടുന്ന അതിമൃദുലമായ ന്യൂറോണൽ ടിഷ്യൂവിന് അനുരൂപമായ ദൃഢതയാണ് ഇവയ്ക്കുള്ളത് എന്നാൽ ട്യൂമർ ഉടലെടുക്കുമ്പോൾ മേല്പറഞ്ഞ ദൃഢതയുടെ നിരക്കിൽ പലമടങ്ങ് വർദ്ധനവ് പ്രകടമാകുന്നു എന്നതാണ് വസ്തുത ദൃഢതയുടെ നിരക്ക് ഏതാണ്ട് 5000Pa എന്ന അളവിലെത്തുമ്പോൾ ഏകദേശം 20 മുതൽ 25 മടങ്ങ് വർദ്ധനവാണ് നമുക്ക് ഇവിടെ ദൃശ്യമാകുന്നത് ട്യൂമറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ട്രോമയിൽ 1000Pa എന്ന തോതിലാണ് ദൃഢത കാണപ്പെടുന്നത് ഏകദേശം 2mgml അളവിലുള്ള കൊളാജെൻ ജെല്ലിൽ പോലും ദൃഢതയുടെ നിരക്കെന്നത് 300Pa എന്ന തോതിലാണ് നിലനിൽക്കുന്നത് ചുരുക്കിപ്പറഞ്ഞാൽ ക്യാൻസറിന്റെ അധിനിവേശമുണ്ടാകുമ്പോൾ ദൃഢതയുടെ നിരക്കിൽ ഗണ്യമായ വർദ്ധനവ് പ്രകടമാകുന്നു എന്നതാണ് വസ്തുത ക്യാൻസറിന്റെ വ്യാപനവും അവ കാഴ്ച്ചവെക്കുന്ന അധിനിവേശവും ദൃഢതയിൽ ദൃശ്യമാകുന്ന വർദ്ധനവിന് ആധാരമായി അനുഭവപ്പെടുന്നതാണോ അതോ ക്യാൻസറിന്റെ അനന്തരഫലമായി ഉടലെടുക്കുന്നതാണോ എന്ന ചോദ്യം ഇവിടെ തീർത്തും പ്രസക്തമാണ് പ്രസ്തുത ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനായി വലേരി വീവർ എന്ന ഗവേഷക 2005 ൽ പ്രസിദ്ധികരിച്ച ചരിത്രപ്രധാനമായ ഈ പ്രബന്ധം നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഇതിനായി ഏകദേശം 200Pa നിരക്കിൽ ദൃഢതയുള്ള സസ്തനഗ്രന്ഥിയിൽ കാണപ്പെടുന്ന സംയോജിത കോശങ്ങളുടെ സ്വഭാവവൈശിഷ്ട്യങ്ങൾ അവർ നിരീക്ഷിക്കുകയുണ്ടായി മേല്പറഞ്ഞ പഠനത്തിന്റെ ഭാഗമായി ഈ കാണുന്ന തരത്തിൽ ഏതാനും കൊളാജെൻ ജെല്ലുകൾ അവർ നിർമ്മിച്ചെടുത്തു കൊളാജെൻ 1 ജെല്ലുകൾ ഉപയോഗപ്പെടുത്തി അവർ വിവിധതരം ബേസ്മെന്റ് മെംബ്രേയ്നിന്റെ മാതൃകകൾ സൃഷ്ടിച്ചെടുക്കുകയുണ്ടായി ഈ കാണുന്ന ഘടകം സുസ്ഥിരമായി നിലനിർത്തി കൊളാജെന്റെ സാന്ദ്രതയിൽ വ്യതിയാനം കൊണ്ടുവരുന്നതിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊളാജെന്റെ സാന്ദ്രത വ്യത്യാസപ്പെടുത്തി വ്യത്യസ്തതരം ദൃഢതകളുടെ ഒരു ശ്രേണി തന്നെ അവർ നിർമ്മിച്ചെടുക്കുകയുണ്ടായി ഈ കാണുന്നത് കൊളാജെന്റെ ആക്സിസാണ് ഇതിൽ രേഖപ്പെടുത്തിയത് പ്രകാരം 3 5mgml എന്ന നിരക്കിലാണ് കൊളാജെന്റെ സാന്ദ്രത 170Pa തോതിൽ ദൃഢത ലഭ്യമാകുന്ന 1mgml എന്ന നിരക്കിലുള്ള സാന്ദ്രത മുതൽ 1200Pa അധികദൃഢതയുള്ള ജെല്ലുകൾ വരെ അവർ നിർമ്മിച്ച ശ്രേണിയിൽ ഉൾപ്പെടുന്നു 170Pa എന്ന നിരക്ക് താരതമ്യേന സാധാരണഗതിയിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്തനഗ്രന്ഥിയുടെ സ്വഭാവഗുണങ്ങളുമായി ഒത്തുപോകുന്നവയാണ് എന്നത് തീർത്തും ശ്രദ്ധേയമാണ് സാധാരണഗതിയിൽ കാണപ്പെടുന്ന MCF 10A എന്ന മാമ്മറി എപ്പിത്തീലിയൽ കോശങ്ങളെ അവർ പ്രസ്തുത പരീക്ഷണത്തിന്റെ ഭാഗമായി പ്ലേറ്റ് ചെയ്യുകയുണ്ടായി മേല്പറഞ്ഞ കോശങ്ങളുടെ രൂപഘടനയിൽ അവർ സന്ദേഹം പ്രകടപ്പിച്ചിരുന്നു 1mgml നിരക്കിൽ സാന്ദ്രതയുള്ള മൃദുലമായ ജെല്ലിൽ പ്രസ്തുത കോശങ്ങൾ അസീനിക്ക് അനുരൂപമായ ഘടന രൂപവൽക്കരിക്കുകയുണ്ടായി മേൽ സൂചിപ്പിച്ച അസീനിയുടെ മധ്യഭാഗം ശൂന്യമായിരുന്നു എന്നാൽ അവയെ വലയം ചെയ്ത് പരസ്പരം ബന്ധിച്ചിരിക്കുന്ന വ്യക്തിഗത കോശങ്ങളും മേല്പറഞ്ഞ കോശങ്ങളുടെ വൃത്തപരിധിയിൽ നിയതമായ ബേസ്മെന്റ് മെംബ്രേയ്നും സുവ്യക്തമായ ന്യൂക്ലിയസും നമുക്കിവിടെ ദൃശ്യമാണ് എന്നതാണ് വസ്തുത എന്നാൽ സുദൃഢമായ പ്രതലങ്ങളിൽ പ്രകടമായ മോർഫോളജി പ്രകാരം ഇൻവേസിവ് ഫീനോടൈപ്പുള്ള കോശങ്ങളുടെ ഒരു സമൂഹമാണ് അവർക്ക് ദൃശ്യമായത് ഇവയിൽ അസീനി എന്ന ഘടന നിലവിലുണ്ടായിരുന്നില്ല ചുരുക്കിപ്പറഞ്ഞാൽ സുദൃഢമായ പ്രതങ്ങളിൽ അസീനിയുടെ ഘടനയിൽ പിളർപ്പ് അനുഭവപ്പെടുകയും അവ ക്രമേണ ഇല്ലാതാകുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം സംയോജിത കോശങ്ങളുടെ ദൃഢത ഒരു പക്ഷെ അസാധാരണമായ എപ്പിത്തീലിയൽ ടിഷ്യൂ ഓർഗനൈസേഷന് നിദാനമായേക്കാം എന്ന സൂചനയാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് പ്രസ്തുത പരീക്ഷണത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ തന്നെ പ്ലേറ്റ് ചെയ്യുന്നതിനിടെ താൻ കൊളാജെന്റെ സാന്ദ്രതയിൽ വ്യതിയാനം വരുത്തുന്നുന്നുണ്ട് എന്ന മുന്നറിയപ്പ് അവർ നൽകിയിരുന്നു ഇത് മൂലം കൊളാജെന്റെ ലിഗാൻഡ് ഡെൻസിറ്റിയിലും വ്യത്യാസം പ്രകടമാകാനുള്ള സാധ്യത ഏറെയാണ് അക്ഷരാർത്ഥത്തിൽ ബൾക്ക് സ്റ്റിഫ്നെസ്സിൽ വ്യത്യാസം അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായും അവയുടെ ലിഗാൻഡ് ഡെൻസിറ്റിയിലും അതിന്റെ പ്രതിഫലനമുണ്ടാകുന്നു ആയതിനാൽ ലിഗാൻഡ് ഡെൻസിറ്റിയിൽ ദൃശ്യമാകുന്ന മാറ്റങ്ങളുടെ അനന്തരഫലമാണ് പ്രസ്തുത വ്യതിയാനങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നത് എന്ന വസ്തുത തള്ളിക്കളയാൻ ഉതകുന്ന പ്രസ്താവനയാണിത് സമാനമായ പരീക്ഷണങ്ങൾ ബേസ്മെന്റ് മെംബ്രേയ്ൻ ഉപയോഗപ്പെടുത്തി പ്രവർത്തനസജ്ജമാക്കിയ പോളിഅക്രിലമൈഡ് ജെല്ലുകളിലും അവർ ആവർത്തിക്കുകയുണ്ടായി ദൃഢതയുടെ നിരക്കിൽ പ്രകടമാകുന്ന വർദ്ധനവ് അസീനിയുടെ ഘടനയെ തകർച്ചയിലേക്ക് നയിക്കാൻ കാരണമാകുമെന്ന സമാനമായ നിരീക്ഷണം അവർ ഇവിടെയും നടത്തുകയുണ്ടായി എന്നതാണ് വസ്തുത പ്രസ്തുത ലെക്ച്ചർ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നാം ഇവിടെ നിന്നും വീണ്ടും ആരംഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ മനഃസാന്നിധ്യത്തിന് നന്ദി